തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 43 ആണ് ഇന്ന് നമ്മൾ ഒരു മാട്രിക്സിന്റെ റാങ്ക് നെക്കുറിച്ച് ചർച്ച ചെയ്യും അത് ലീനിയർ ആൾജിബ്രയിലെ മാട്രിക്സ് എന്ന് വിഷയത്തിൽ നിന്നുള്ളതാണ് നമ്മളുടെ മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ നമ്മൾ പരാമർശിച്ച നിർവ്വചനം നമ്മൾ ആരംഭിക്കുന്നു ഒരു മാട്രിക്സിന്റെ റാങ്ക് അതിന്റെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിലെ നോൺ സീറോ റോകളുടെ എണ്ണം അല്ലെങ്കിൽ അതിലെ പിവറ്റുകളുടെ എണ്ണം ആണ് അതിനാൽ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം വളരെ പ്രധാനമാണ് ഇത് മാട്രിക്സിനെക്കുറിച്ച് ധാരാളം പറയുന്നു റാങ്കിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആശയമാണിത് അതിനാൽ മാട്രിക്സിന്റെ റാങ്ക് എന്നത് നമ്മളുടെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമുകളിൽ കാണുന്ന പിവറ്റുകളുടെ എണ്ണമാണ് അതിനാൽ ഉദാഹരണത്തിന് നമ്മൾ ഈ എടുക്കുന്നു ഈ മാട്രിക്സ് മുമ്പത്തെ ലെക്ച്ചർൽ ഇതിനകം നമ്മൾ ഉപയോഗിച്ചിരുന്നു അതിന്റെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം വീണ്ടും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ മാട്രിക്സിന്റെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമാണിത് ഇപ്പോൾ നമ്മൾ ഇവിടെ പിവറ്റുകൾ എത്രയുണ്ട് എന്നാണ് എണ്ണി കണക്കാക്കേണ്ടത് ആദ്യ നിരയിൽ 1 പിവറ്റ് ആണ് കൂടാതെ മൂന്നാമത്തെ നിരയിൽ 1 പിവറ്റ് ആണ് നാലാമത്തെ നിരയിൽ 2 ആണ് പിവറ്റ് അതിനാൽ നമ്മൾക്ക് 1 2 3 അതായത് റോ റെഡ്യൂസ്ഡ് എക്കെലോൺ മാട്രിക്സ്സിൽ മൂന്ന് പിവറ്റുകൾ ഉണ്ട് അതിനാൽ ഈ മാട്രിക്സിന്റെ റാങ്ക് 3 ആണ് അതിനാൽ റാങ്ക് എന്നതിൻറെ നിർവചനം അനുസരിച്ച് മാട്രിക്സിന്റെ റാങ്ക് എന്നത് റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിലെ പിവറ്റുകളുടെ എണ്ണമാണ് ഈ ഉദാഹരണത്തിൽ ഇത് 3 ആണ് ഈ നിർവചനത്തിന്റെ ഒരു പരിണിതഫലം ഒരു m × n മാട്രിക്സിന്റെ റാങ്ക് n അല്ലെങ്കിൽ m നേക്കാൾ വലുതായിരിക്കില്ലെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും m എന്നത് വരികളുടെ എണ്ണവും n എന്നത് നിരകളുടെ എണ്ണവുമാണ് കൂടാതെ റാങ്ക് m അല്ലെങ്കിൽ n നേക്കാൾ കൂടുതലാകരുത് ഇത് m n എന്നിവയുടെ ഏറ്റവും മിനിമം ആയിരിക്കാം കാരണം വ്യക്തമാണ് നമ്മളുടെ ഓരോ നിരയ്ക്കും അല്ലെങ്കിൽ ഓരോ വരിയ്ക്കും ഒന്നിലധികം പിവറ്റ് ഉണ്ടാകില്ല നിരയ്ക്ക് പരമാവധി ഒരു പിവറ്റ് അല്ലെങ്കിൽ വരിക്ക് പരമാവധി ഒരു പിവറ്റ് ഉണ്ടായിരിക്കാം ഒരു വരിയിൽ രണ്ട് പിവറ്റുകളോ അതിൽ കൂടുതലോ ഉണ്ടാകരുത് അതുപോലെ നിരയ്ക്ക്ക്കും കഴിയില്ല രണ്ട് പിവറ്റുകളും അതിലധികവും ഉണ്ടായിരിക്കാൻ നമ്മൾ പിവറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ റാങ്ക് ഇവിടെ മിനിമമായ m നേക്കാൾ കൂടുതലാകാൻ കഴിയില്ല അത് ഇവിടെ നാലാണ് ഇവിടെ എന്നിവ ഫ്രീ വേരിയബിളുകൾ ആയി എടുത്തു നമുക്ക് സൊലൂഷൻ എഴുതാം ഈ ഫ്രീ വേരിയബിളുകൾ എടുക്കുമ്പോൾ നമുക്ക് ഈ Ax 0 യുടെ സൊലൂഷൻ ഈ രൂപത്തിൽ എഴുതാമെന്ന് നമ്മൾ ഇതിനകം നിരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ റാങ്കിനുള്ള മറ്റ് നിർവചനങ്ങൾക്കായി തിരയുന്നു കാരണം റാങ്ക് എന്നതിന് പിവറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൽകിയ ഒരേയൊരു നിർവചനം മാത്രമല്ല ഉള്ളത് അതിനാൽ നമ്മൾക്ക് ഇവിടെ ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ കേസ് 1 ശ്രദ്ധിച്ചാൽ എന്നിവ എടുക്കുകയാണെങ്കിൽ ഈ ആൽഫകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഈ സിസ്റ്റത്തിന്റെ ഒരു സൊലൂഷൻ ലഭിക്കും അടിസ്ഥാനപരമായി നമ്മൾ വ്യത്യസ്തങ്ങളായ സൊലൂഷൻകൾ തേടുന്നു അതിനാൽ ഈ പ്രത്യേക കേസിനായി നമ്മൾ ഇത് ആയി തിരഞ്ഞെടുക്കുന്നു അതിനാൽ Ax 0 ന്റെ ഒരു സൊലൂഷൻ എന്നാകുന്നു എന്നിട്ട് ഈ Ax 0 ഈ സമവാക്യം നമുക്ക് ഈ രൂപത്തിൽ എഴുതാം

ഇത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഈ മാട്രിക്സ് A യുടെയും x ൻറെയും പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ തുടർന്ന് ആദ്യ നിര ഈ തുടർന്ന് രണ്ടാമത്തെ നിര തുടർന്ന് മൂന്നാം നിര തുടർന്ന് നാലാം നിര തുടർന്ന് അഞ്ചാം നിര എന്നിങ്ങനെ ഇവയെല്ലാം കൂട്ടിച്ചേർക്കുന്നത് 0 ന് തുല്യമാണ് അതിനാൽ ഈ മാട്രിക്സ് വെക്റ്റർ പ്രോഡക്റ്റ് എഴുതാൻ നമ്മൾ നോക്കുന്ന മറ്റൊരു മാർഗമാണിത് ഈ വെക്റ്റർ ഫോമുകളിൽ നമുക്ക് ഇതിനെ എഴുതാൻ സാധിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇതുമായി എന്നത് ഈ സമവാക്യ സിസ്റ്റത്തിന്റെ ഒരു സൊലൂഷൻ ആണ് എന്ന് നമ്മൾ നിരീക്ഷിച്ചു ഇത് ഇവിടെ എന്ന് കാണാം അതിനാൽ കോളം 1 ന്റെ മൈനസ് 2 ടൈംസ് പ്ലസ് കോളം 2 സീറോ ക്ക് തുല്യമാണ് എന്ന് നമുക്ക് ലഭിക്കുന്നു അതിനാൽ ഈ കോളം 1 കോളം 2 എന്നിവ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതായി ഈ ബന്ധത്തിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു കോളം 1 ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കോളം 2 ഇവിടെ എഴുതാം കോളം 2 എന്നാൽ കോളം 1 രണ്ട് തവണ എന്നാണ് അർത്ഥമാക്കുന്നത് അത് മാട്രിക്സിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ബന്ധമാണ് പക്ഷേ ചിലപ്പോൾ അത് ചിത്രത്തിൽ കൂടുതൽ വെക്റ്ററുകൾ ഉള്ളപ്പോൾ കാണാൻ എളുപ്പമല്ല ഇവിടെ രണ്ട് വെക്റ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ C2 കോളം 2 എന്നത് 2 ടൈംസ് C1 എന്ന് നമ്മൾ കണ്ട ഒരു ബന്ധമാണ് അതിനാൽ ഈ രണ്ട് കോളങ്ങളും ആശ്രിത കോളങ്ങൾ ആണ് ഒരു ദ്രുതഗതിയിലുള്ള നിരീക്ഷണം കൂടി നമ്മൾ എടുക്കുന്നു നമ്മൾ ഇപ്പോൾ എന്നിവ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു കേസ് എടുക്കും ഇതിനർത്ഥം ഈ Ax 0 യുടെ സൊലൂഷൻ ഈ വെക്റ്റർ ആണ് ഈ വെക്ടർമായി ഇതിൻറെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിൽ ഫസ്റ്റ് കോളം തേർഡ് കോളം ഫോർത്ത് കോളം എന്നിവ പിവറ്റുകളുള്ള കോളങ്ങൾ ആണെന്നു കാണാം അതിനാൽ ഇവിടെ Ax 0 വീണ്ടും ഈ നിരീക്ഷണത്തിലൂടെ നമ്മൾ Ax 0 ടെ സൊലൂഷൻ ഈ എന്ന് പറയുന്നു

മറ്റൊരു നിരീക്ഷണം റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിൽ ഇവിടെ കോളം നമ്പർ 1 കോളം നമ്പർ 3 കോളം നമ്പർ 4 എന്നിവയിലുള്ള ചുവപ്പ് നിറത്തിൽ കൊടുത്തിരിക്കുന്ന വെക്ടർകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ഏതൊരാൾക്കും കണ്ടെത്താം കൂടാതെ ഈ നിരകൾ ഫ്രീ വേരിയബിളുകളുമായി അനുബന്ധം ആയതാണെന്ന് നമ്മൾ കണ്ടു അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ഇത് പൊതുവായ റിസൾട്ടും ആണ് ഈ പ്രത്യേക ഉദാഹരണത്തിനുവേണ്ടി മാത്രമല്ല റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിൽ നമുക്ക് പിവറ്റുകൾ ഉള്ള കോളങ്ങൾ അവ എല്ലായ്പ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കൂടാതെ ഈ ഫ്രീ വേരിയബിളുകളുള്ള അഥവാ പിവറ്റുകൾ ഇല്ലാത്ത മറ്റ് നിരകൾ അവ യഥാർത്ഥത്തിൽ ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഈ റാങ്കിന് പറയുന്ന നിർവചനം നമുക്ക് മാറ്റിയെഴുതാം ഇത് പിവറ്റുകളുടെ എണ്ണമല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ ഇപ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് കോളങ്ങളുടെ എണ്ണമായി എഴുതാം റാങ്ക് എന്നത് ഇൻഡിപെൻഡന്റ് കോളങ്ങളുടെ എണ്ണം എന്ന് നിർവചിക്കാം നമ്മൾ പരിഗണിച്ച ഈ കേസിൽ 3 ഇൻഡിപെൻഡന്റ് കോളങ്ങൾ ഉണ്ട് അവ അടിസ്ഥാനപരമായി ഈ പിവറ്റ് കോളങ്ങളും ആയി യോജിക്കുന്നു അതിനാൽ റാങ്കിനായുള്ള നമ്മളുടെ നിർവചനം റാങ്ക് എന്നത് ഒരു മാട്രിക്സിലെ ഇൻഡിപെൻഡന്റ് കോളങ്ങളുടെ എണ്ണമല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് നമ്മൾ ഇവിടെ നടത്തിയ അതേ നിരീക്ഷണം വീണ്ടും വരികൾ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാനാകും നമുക്ക് ഈ പിവറ്റുകൾ ലഭിച്ച റോകളും ഈ മാട്രിക്സിൽ ഇൻഡിപെൻഡൻഡ് ആണ് അതിനാൽ റാങ്ക് ഇൻഡിപെൻഡൻഡ് ആയ റോകളുടെ എണ്ണം കോളങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും കാരണം പിവറ്റുകളുടെ എണ്ണം അടിസ്ഥാനപരമായി അതിന്റെ റെഡ്യൂസ്ഡ് ഫോമിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു അതിനാൽ നമുക്കുള്ളത് ഒരു മാട്രിക്സിന്റെ റാങ്ക് എന്നത് ഒരു മാട്രിക്സിലെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വരികളുടെ എണ്ണം അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് നിരകളുടെ എണ്ണമാണ് ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരു നിർവചനം കൂടി നൽകാൻ പോകുന്നു അതിനുമുമ്പ് നമ്മൾ രണ്ട് സ്പേസുകൾ നിർവ്വചിക്കുന്നു കോളം സ്പേസ് റോ സ്പേസ് എന്നിവയാണവ A യുടെ കോളം സ്പേസ് എന്നത് A യുടെ കോളം വെക്റ്ററുകളുടെ സ്പാൻ മാത്രമാണ് അതിനാൽ തന്നിരിക്കുന്ന മാട്രിക്സ് A യ്ക്ക് നമ്മൾ അതിന്റെ കോളം വെക്റ്ററുകളായി എടുക്കുകയും അവയെ സ്പാൻ ചെയ്യുകയും ചെയ്യുന്നു അതിനെയാണ് നമ്മൾ കോളം സ്പേസ് എന്ന് വിളിക്കുന്നത് വെക്ടർ സ്പേസുകളുടെ സ്പാൻ കഴിഞ്ഞ ലെക്ച്ചർൽ നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് അതിനാൽ ഇവിടെയും ഈ വെക്റ്ററുകളുടെ സ്പാൻ അഥവാ ഇതിലെ കോളം വെക്റ്ററുകൾ ഒരു വെക്റ്റർ സ്പേസ് ഫോം ചെയ്യും അതിനെ നമ്മൾ കോളം സ്പേസ് എന്ന് വിളിക്കുന്നു അതിനാൽ കോളം സ്പേസ് ഒരു വെക്റ്റർ സ്പേസ് ആണ് അത് A യുടെ കോളങ്ങളുടെ സ്പാൻ മാത്രമാണ് അതുപോലെ നമുക്ക് റോ സ്പെയ്സ് ഉണ്ട് റോ സ്പെയ്സ് മറ്റൊന്നുമല്ല A യുടെ റോ വെക്റ്ററുകളുടെ സ്പാൻ ആണ് കോളം സ്പെയ്സിന് സമാനമായത് റാങ്കിനായി ഇപ്പോൾ നമ്മൾക്ക് മറ്റൊരു നിർവചനം ഉണ്ട് മാട്രിക്സിന്റെ റാങ്ക് റോ സ്പെയ്സ്ന്റെ ഡയമെന്ഷനാണ് കാരണം നമ്മൾ റോകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ റോകളുടെ സ്പെയ്സ്ന്റെ ഡയമെൻഷൻ എന്തായിരിക്കും ഈ സെറ്റിലെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ റോകളുടെ എണ്ണമായിരിക്കും ഡയമെൻഷൻ അതിനാൽ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ റോകളുടെ എണ്ണം യഥാർത്ഥത്തിൽ വീണ്ടും റാങ്ക്നുള്ള മറ്റൊരു നിർവചനമാണ് ഇവിടെ റോ സ്പെയ്സ്ന്റെ ഡയമെൻഷൻ എന്നത് മാട്രിക്സിലെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ റോകളുടെ എണ്ണം ആണ് അതുപോലെ കോളം സ്പെയ്സിന്റെ ഡയമെൻഷൻ എന്നത് മാട്രിക്സിലെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ കോളങ്ങളുടെ എണ്ണവും ആണ് അതിനാൽ നമ്മൾക്ക് ഇതിനകം മൂന്ന് നിർവചനങ്ങൾ ഉണ്ട് നിർവചനം നമ്പർ 1 റാങ്ക് എന്നത് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലെ പിവറ്റുകളുടെ എണ്ണം നിർവചനം നമ്പർ 2 ഒരു മാട്രിക്സിന്റെ റാങ്ക് ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ റോകളുടെ എണ്ണം അല്ലെങ്കിൽ മാട്രിക്സിന്റെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ കോളങ്ങളുടെ എണ്ണം മാത്രമാണ് കൂടാതെ ഡയമെൻഷൻറെ അടിസ്ഥാനത്തിൽ നമുക്ക് നിർവചനം നമ്പർ 3 റാങ്ക് എന്നത് റോ സ്പെയ്സിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ കോളം സ്പെയ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയാം റാങ്ക് നള്ളിറ്റി തിയറം എന്ന് അറിയപ്പെടുന്ന ഒരു തിയറം ഉണ്ട് അത് ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമ്മൾ നിരീക്ഷിക്കും വീണ്ടും നമ്മൾ മുമ്പെടുത്ത അതേ ഉദാഹരണം ഉദാഹരണവുമായിതുടരും നമ്മൾക്ക് ഇവിടെ ഈ എ ഉണ്ട് അതിന്റെ റോ റെഡ്യൂസ്ഡ് എക്കലൻ രൂപം നമുക്ക് ഉണ്ട് 1 1 2 എന്നീ പിവറ്റ് ഘടകങ്ങളുണ്ട് Ax 0 എന്ന സിസ്റ്റത്ത്തിൻറെ സൊല്യൂഷൻ എന്ന രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതും നമ്മളുടെ പക്കലുണ്ടായിരുന്നു ഇവിടെ A യുടെ റാങ്ക് 3 ആണ് കാരണം അത് ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ റോകളുടെ എണ്ണം അല്ലെങ്കിൽ മാട്രിക്സിന്റെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയ കോളങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമുക്ക് ഈ റാങ്ക് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലെ പിവറ്റുകളുടെ എണ്ണം ആണ് അത് ഇവിടെ 3 ആണ് A യുടെ നള്ളിറ്റി എന്താണ് നള്ളിറ്റി എന്നത് നൾ സ്പേസിന്റെ ഡയമെൻഷനായിരുന്നെന്നും നൾ സ്പേസ് ഇവിടെ എന്ന സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സെറ്റ് ആണെന്നും ഓർമ്മിക്കുന്നു Ax 0 ന്റെ സൊല്യൂഷൻ സെറ്റ് നമുക്ക് ഡൈമൻഷൻ 2 ആണ് നൽകുന്നത് കാരണം ഈ സെറ്റിന്റെ ഏത് പരിഹാരവും സൃഷ്ടിക്കാൻ കഴിയുന്ന രണ്ട് വെക്റ്ററുകൾ ഇവയാണ് ഈ രണ്ട് വെക്റ്ററുകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അതിനാൽ ഇവിടെ A യുടെ നള്ളിറ്റി 2 ആണ് കാരണം ഇത് കൃത്യമായി ഈ റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലെ ഫ്രീ വേരിയബിളുകളുടെ എണ്ണം ആണ് പൊതുവേ അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഈ ഉദാഹരണത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി സംസാരിക്കാം ഇവിടെ നമുക്ക് റാങ്ക് 3 ഉണ്ട് നള്ളിറ്റി 2 ആണ് ഈ രണ്ടും ചേർക്കുമ്പോൾ അത് 325 നൽകും അത് ഇവിടെയുള്ള വേരിയബിളുകളുടെ എണ്ണം നമുക്ക് ലഭിക്കും അതായത് ലെ അൺനോനു കളുടെ എണ്ണം കാരണം വ്യക്തമാണ് റാങ്ക് കൃത്യമായി ഇവിടെ പിവറ്റുകളുടെ എണ്ണം നിർവ്വചിക്കുന്നു കൂടാതെ ഈ നള്ളിറ്റി എന്നത് ഈ നോൺ പിവറ്റുകളുടെ എണ്ണമല്ലാതെ മറ്റൊന്നുമല്ല ഓരോ കോളവും നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നു ഇവിടെ നമുക്ക് പിവറ്റ് ഉണ്ട് അത് ഇവിടെ റാങ്കിലേക്ക് എണ്ണും അതിനാൽ 1 ഇവിടെ 1 പ്ലസ് 1 ഉം 1 ഈ പ്ലസ് 1 അതിനാൽ നമ്മൾ ക്ക് 3 റാങ്ക് ഉണ്ട് കാരണം ഈ 3 കോളങ്ങൾക്ക് പിവറ്റുകൾ ഉണ്ട് ഈ രണ്ട് കോളങ്ങൾക്ക് പിവറ്റ് ഇല്ല അതിനാൽ അവ സ്വതന്ത്ര വേരിയബിളുകളായിരിക്കും അത് A യുടെ നള്ളിറ്റി അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് ഇവിടെ അവസാനം കൂട്ടിച്ചേർക്കുന്നു അത് കോളങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ Axb എന്നതിലെ അൺനോനു കളുടെ എണ്ണം ആണ് അതിനാൽ ഈ 32 5 ഈ സാഹചര്യത്തിൽ നമുക്ക് 5 കോളങ്ങൾ ഉണ്ട് പൊതുവേ നമ്മൾ ഇത് എങ്ങനെ വായിക്കും A യുടെ നള്ളിറ്റി മറ്റൊന്നുമല്ല ഈ മുൻ കേസിൽ 2 ആയിരുന്ന നൾ സ്പേസിന്റെ ഡയമെന്ഷൻ ആണ് അതായത് ഫ്രീ വേരിയബിളുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്മുടെ നൊട്ടേഷനിൽ നമ്മൾ ഈ ഫ്രീ വേരിയബിളുകൾ n മൈനസ് r ആയി എടുക്കുന്നു കാരണം നമുക്ക് n കോളങ്ങൾ ഉണ്ട് കൂടാതെ r റോകളിൽ ആണ് നമുക്ക് പിവോട്ടുകൾ ഉള്ളത് ഈ r അടിസ്ഥാനപരമായി മാട്രിക്സിന്റെ റാങ്കാണ് കാരണം ഇവ പിവറ്റ് ഇരിക്കുന്ന വരികളാണ് അതിനാൽ A യുടെ റാങ്ക് r ആണ് അത് പിവറ്റ് എലെമെന്റുകളുടെ എണ്ണമാണ് അതിനാൽ ഇവിടെ റാങ്ക് r ആണ് ഈ നള്ളിറ്റി n r ആണ് അതിനാൽ ഈ റാങ്ക് നള്ളിറ്റി തിയറം മറ്റൊന്നുമല്ല അത് ഒരു മാട്രിക്സിന്റെ റാങ്കും മാട്രിക്സിന്റെ നള്ളിറ്റിയും കൂട്ടിചേർക്കുന്നത് എന്താണെന്ന് പറയുന്നു അതിനാൽ r പ്ലസ് ഈ n r കൂട്ടിചേർക്കുമ്പോൾ അത് നിർബന്ധമായും മാട്രിക്സിലെ കോളങ്ങളുടെ എണ്ണം ആയിരിക്കും അതിനാൽ ഇതിനെ റാങ്ക് നള്ളിറ്റി തിയറം എന്ന് വിളിക്കുന്നു റാങ്ക് നള്ളിറ്റി n ഇപ്പോൾ എന്ന മാട്രിക്സിന്റെ റാങ്ക് ഇവിടെ കാണാം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് റാങ്ക് കണ്ടെത്തുന്നതിന് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യണം ഈ സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ 3 യുടെ താഴെ എല്ലാം 0 ആയി സജ്ജമാക്കാൻ ശ്രമിക്കും അതിനായി നമ്മൾ ഫസ്റ്റ് റോയുടെ 2 മടങ്ങ് സെക്കന്റ് റോയിലേക്ക് ചേർക്കുന്ന ഓപ്പറേഷൻ എടുക്കുന്നു സെക്കന്റ് റോയിൽ യഥാക്രമം 0 42 28 58 ലഭിക്കുന്നു ശേഷം സെക്കൻഡ് റോയുടെ 7 മടങ്ങ് തേർഡ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എടുക്കുന്നു തേർഡ് റോയിൽ യഥാക്രമം ലഭിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് എന്ന് ലഭിക്കുന്നു ഇത് റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമാണ് ഇപ്പോൾ നമ്മൾ പിവറ്റുകളുടെ എണ്ണം കണക്കാക്കണം നമ്മൾക്ക് ഇവിടെ ഫസ്റ്റ് കോളത്തിൽ 3 എന്ന് ഒരു പിവറ്റ് ഉണ്ട് സെക്കൻഡ് കോളത്തിൽ 42 ആയി മറ്റൊരു പിവറ്റ് ഉണ്ട് അതിനാൽ ഇവിടെ മൊത്തം പിവറ്റുകൾ 2 ഉണ്ട് അതാണ് ഇവിടെ ഈ മാട്രിക്സിന്റെ റാങ്ക് 2 അതിനാൽ റാങ്ക് നേടാനുള്ള ഏറ്റവും ലളിതമായ മാർഗ്ഗമാണിത് നമ്മൾ മാട്രിക്സ് എടുത്ത് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് റോ റെഡ്യൂസ് ചെയ്യും തുടർന്ന് പിവറ്റുകളുടെ എണ്ണം കണക്കാക്കണം അത് മാട്രിക്സിന്റെ റാങ്കാണ് A യുടെ റാങ്ക് കണ്ടുപിടിക്കുന്ന മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം അതിനാൽ റാങ്ക് 3 ഡിറ്റർമിനന്റിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നിർണ്ണയിക്കാൻ മറ്റൊരു വഴിയുണ്ട് അത് നമ്മൾ എവിടെ ഉടൻ നൽകുന്നു ആദ്യം ഇവിടെ സബ്മാട്രിക്സി ന്റെ നിർവചനം ഈ A എന്നത് m × n എന്ന ഓർഡർന്റെ ഏതെങ്കിലും മാട്രിക്സ് ആണെന്ന് കരുതുക തുടർന്ന് A ൽ നിന്ന് ചില വരികളും ചില നിരകളും നീക്കംചെയ്തു ലഭിക്കുന്ന ഒരു മാട്രിക്സിനെ സബ്മാട്രിക്സ് എന്ന് വിളിക്കുന്നു തന്നിരിക്കുന്ന മാട്രിക്സ്ൽനിന്ന് ആദ്യ വരി മൂന്നാമത്തെ നിര എന്നിവ നീക്കംചെയ്യുന്നു എന്നിട്ട് അവശേഷിക്കുന്ന മാട്രിക്സ് ഒരു സബ്മാട്രിക്സ് ആണ് അല്ലെങ്കിൽ കൂടുതൽ വരികൾ കൂടുതൽ നിരകൾ നീക്കംചെയ്യാം അതിനാൽ ചില വരികളും ചില നിരകളും നീക്കംചെയ്ത് ഈ ചെറിയ മാട്രിക്സ് എന്തുതന്നെയായാലും അതിനെ സബ്മാട്രിക്സ് എന്ന് വിളിക്കുന്നു ഒരു മാട്രിക്സ് A യുടെ റാങ്ക് ഡിറ്റർമിനന്റിൽ നിന്നും നിർവചിക്കാവുന്നതാണ് മാട്രിക്സ് A ക്ക് റാങ്ക് r ആണ് എങ്കിൽ അതിന് നോൺസെറോ ഡിറ്റർമിനന്റ് ഉള്ള സബ്മാട്രിക്സ് ഉണ്ടായിരിക്കും തിരിച്ച് ഒരു മാട്രിക്സ്ന് നോൺസീറോ ഡിറ്റർമിനന്റ് ഉള്ള സബ്മാട്രിക്സ് ഉണ്ട് എങ്കിൽ അതിൻറെ റാങ്ക് r ആയിരിക്കും അതിനാൽ നോൺസെറോ ഡിറ്റർമിനന്റ് ഉള്ള ഈ സബ്മാട്രിക്സ് നമ്മൾക്ക് ലഭിക്കേണ്ടതുണ്ട് അതേസമയം r1 അല്ലെങ്കിൽ കൂടുതൽ റോകളുടെ ഓരോ സബ് സ്ക്വയർ മാട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് 0 ആണ് അതിനാൽ നമ്മൾ മുഴുവൻ മാട്രിക്സിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് അത് 2 ബൈ 3 മാട്രിക്സ് ആണെങ്കിൽ 2 ബൈ 2 സബ്മാട്രിക്സ് ആണ് നമ്മൾ നോക്കേണ്ടത് അവയെല്ലാം 0 ആണോ എന്ന് നോക്കണം എല്ലാം സീറോ ആണെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് പോകണം തുടർന്ന് ഈ സബ്മാട്രിക്സ് നോൺസെറോ ഡിറ്റർമിനന്റ് ഉള്ളതാണോ എന്ന് നോക്കണം ഇങ്ങനെ തുടരുന്നു ഒരു പ്രത്യേക കേസിൽ A ഒരു സ്ക്വയർ n ക്രോസ് n മാട്രിക്സ് ആയിരിക്കുമ്പോൾ അതിന് ആണെങ്കിൽ അതിന് n റാങ്ക് ഉണ്ട് നമുക്ക് ഡിറ്റർമിനന്റ് 0 അല്ലാത്ത ഒരു സ്ക്വയർ മാട്രിക്സ് ഉണ്ടെന്നു പറഞ്ഞാൽ അതിന് പൂർണ്ണ റാങ്ക് ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ റാങ്ക് n ആണ് കാരണം ഡിറ്റർമിനന്റ് 0 അല്ല ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ വ്യത്യസ്ത n 1 സബ്മാട്രിക്സികളിലേക്ക് റെഡ്യൂസ് ചെയ്യണം അവയുടെയെല്ലാം ഡിറ്റർമിനന്റ്കൾ പരിശോധിക്കുക എല്ലാം 0 ആണെങ്കിൽ വ്യത്യസ്ത n 2 സബ്മാട്രിക്സികളിലേക്ക് റെഡ്യൂസ് ചെയ്യണം അവയുടെയെല്ലാം ഡിറ്റർമിനന്റ്കൾ പരിശോധിക്കുക അങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുക ഉദാഹരണത്തിന് ഈ n 1 സബ്മാട്രിക്സിൽ ഒരെണ്ണത്തിന് എങ്കിലും നോൺസീറോ ഡിറ്റർമിനന്റ് ഉണ്ട് എങ്കിൽ റാങ്ക് n 1 ആയിരിക്കും 0 മാട്രിക്സിന്റെ റാങ്ക് 0 ആണ് ഉദാഹരണത്തിന് ഇവിടെ നോൺസെറോ ഡിറ്റർമിനന്റ് ഉള്ള ഏതെങ്കിലും സബ്മാട്രിക്സ് നമ്മൾ ലെവൽ 1 വരെ എടുക്കുക എല്ലാ എൻട്രികളും 0 ആകുന്നു നിങ്ങൾ എടുക്കുന്നത് ഏത് ഓർഡർ ആണെങ്കിലും ഡിറ്റർമിനന്റ് 0 ആകുന്നു അതിനാൽ എല്ലാ സബ്മാട്രിക്സുകളും 0 ആകുന്നു അതിനാൽ ഇതിനെ 0 മാട്രിക്സ്ൻറെ റാങ്ക് 0 ആണെന്ന് പറയുന്നു ഇവിടെ നമ്മൾ ഈ ലളിതമായ ഉദാഹരണം എടുക്കും ഈ ഉദാഹരണത്തിൽ നമുക്ക് ഈ A യുടെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് വ്യക്തമായി കാണാം കാരണം ഇവിടെ ഫസ്റ്റ് റോ 3 1 2 കൂടാതെ തേർഡ് റോയും 3 1 2 ആണ് അതിനാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും അതിനാൽ A യുടെ ഡിറ്റർമിനന്റ് 0 ആണ് അതായത് ഇപ്പോൾ റാങ്ക് 3 ആകാൻ കഴിയില്ല കാരണം നമ്മൾക്ക് ഡിറ്റർമിനന്റ് 0 അല്ലാത്ത 3 × 3 മാട്രിക്സ് ലഭിക്കുന്നില്ല അത് നോൺസീറോ ആയിരിക്കണം ഡിറ്റർമിനന്റ് നോൺസീറോ ആയിരിക്കണം അപ്പോൾ റാങ്ക് 3 ആയിരിക്കും അതിനാൽ ഇപ്പോൾ റാങ്ക് 3 ൽ കുറവായിരിക്കും അതിനാൽ ഓർഡർ 2 × 2 ന്റെ സബ്മാട്രിക്സ്കളുടെ ഡിറ്റർമിനന്റ്കൾ നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഉദാഹരണത്തിന് ഈ 2 × 2 സബ്മാട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ നിരയും മൂന്നാം നിരയും ഉപേക്ഷിച്ച് നമ്മൾ ഇത് എടുക്കും അതിനാൽ നമ്മൾക്ക് ഇവിടെ ഡിറ്റർമിനന്റ് 6 60 ആയിരിക്കും അതിനാൽ വീണ്ടും ഇത് 0 നമ്മൾ മറ്റേതെങ്കിലും 2 × 2 സബ്മാട്രിക്സ് എടുക്കുന്നു ഇവിടെ 1 2 2 4 സബ്മാട്രിക്സ് കൂടി എടുക്കുന്നു നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഇത് 0 ആണ് നമ്മൾ 6 4 3 2 എന്നിവ എടുക്കുന്നു ഇവിടെയും ഡിറ്റർമിനന്റ് 12 120 ആയിരിക്കും ഈ മാട്രിക്സിൽ നിന്ന് എടുക്കുന്ന ഏത് 2 × 2 സബ്മാട്രിക്സ്നും ഡിറ്റർമിനന്റ് 0 ആണ് എന്ന് കാണാം അതിനാൽ എല്ലാ 2 × 2 സബ്മാട്രിക്സിനും ഡിറ്റർമിനന്റ് 0 ആണുള്ളത് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഓർഡർ 1 ന്റെ ഈ ഡിറ്റർമിനന്റ് നോക്കേണ്ടതുണ്ട് പക്ഷേ അത് എന്തായാലും ഒരു നോൺസീറോ മാട്രിക്സ് ആണ് അതിനാൽ നമ്മൾ ക്ക് എന്ത് മൂല്യമുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ റാങ്ക് 1 ആയിരിക്കണം കാരണം ഇത് 0 മാട്രിക്സ് അല്ല അതിനാൽ ഇവിടെ റാങ്ക് 1 ആണ് ഉദാഹരണം 2 എടുക്കുന്നു ഇതിൽ A യുടെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് കാണാം ഡിറ്റർമിനന്റ് 0 ആയിരിക്കുമ്പോൾ അതിൻറെ റാങ്ക് മാട്രിക്സിന്റെ ഓർഡറിനേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കും ഇവിടെ ഇത് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് അതിനാൽ റാങ്ക് A 3 ഈ കേസിൽ നമ്മൾ എടുക്കുന്ന 2 × 2 സബ്മമാട്രിക്സ് 1 2 3 4 ആണെങ്കിൽ അതിൻറെ തന്നെ ഡിറ്റർമിനന്റ് മൂല്യം 4 6 2≠ 0 ആണെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു അതിനാൽ ഇത് 0 ന് തുല്യമല്ല അതിനാൽ നമ്മൾക്ക് ഓർഡർ 2 ആയ ഒരു സബ്മാട്രിക്സ് ഉണ്ട് അതിന്റെ ഡിറ്റർമിനന്റ് 0 അല്ല അവിടെ നമുക്ക് ഇപ്പോൾ റാങ്ക് 2 ആയിരിക്കുമെന്ന് തീരുമാനിക്കാം റാങ്ക് നേടുന്നതിനുള്ള ഈ രീതി മുമ്പത്തെ പ്രക്രിയയേക്കാൾ അൽപ്പം ബുദ്ധിമുട്ടാണ് നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്താൽ റാങ്ക് എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഡിറ്റർമിനന്റുകളുടെ ഈ വ്യത്യസ്ത ഓർഡറുകൾക്കായി നിങ്ങൾ നോക്കുകയും എന്തെങ്കിലും നോൺസെറോ ആണോ എന്ന് പരിശോധിക്കുകയും വേണം ഉദാഹരണത്തിന് ഈ സബ്മാട്രിക്സിന് ഡിറ്റർമിനന്റു നോൺസെറോ ഉണ്ടെന്ന് കാണുന്നത് എളുപ്പമായിരുന്നു ഇത് അതിനാൽ റാങ്ക് 2 ആണ് നമ്മൾ ഐഡന്റിറ്റി മാട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആണെന്നും അതിനാൽ ഈ മാട്രിക്സിന്റെ റാങ്ക് 3 ആണെന്നും നമുക്ക് അറിയാം നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുന്നു റാങ്കിന്റെ വിവിധ നിർവചനങ്ങൾ നമ്മൾ കണ്ടു അതിലൊന്ന് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലെ പിവറ്റുകളുടെ എണ്ണം മറ്റൊന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ റോകളുടെ എണ്ണം നിരവധി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ കോളങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ കോളം സ്പേസിന്റെ ഡയമെന്ഷനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അത് റാങ്ക് അല്ലാതെ മറ്റൊന്നുമല്ല റോസ്പേസിന്റെ ഡയമെന്ഷനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അതും റാങ്ക് ആയിരുന്നു നമ്മൾ ഡിറ്റർമിനന്റിന്റെ അടിസ്ഥാനത്തിലും റാങ്ക് ചർച്ചചെയ്തു ഇവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റഫറൻസുകൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി